ഇന്നത്തെ മൊഡ്യൂൾ നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷനുകളെക്കുറിച്ച് സംസാരിക്കും മുമ്പത്തെ മൊഡ്യൂളുകളിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നമ്മൾ സർഫസ് ഇന്റഗ്രൽ സമവാക്യങ്ങൾ നോക്കി നമ്മൾ ഒരു g ഫംഗ്ഷൻ എഴുതുന്നത് തുടർന്നു നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് നോക്കിക്കാണും ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നോക്കിയിട്ട് കാര്യമില്ല അതിനാൽ ഈ മൊഡ്യൂളിന്റെ ഒരു രൂപരേഖയുണ്ട് നമ്മൾ ആദ്യം അതിനായി ഒരു പ്രചോദനം നൽകും അതിനുള്ള പ്രചോദനം നൽകിയ ശേഷം നമ്മൾ ചില ലളിതമായ 1D 2D 3D ഉദാഹരണങ്ങളിലൂടെ കടന്നുപോകും അതിനാൽ നിങ്ങളിൽ പലർക്കും ഇത് ആദ്യമായിട്ടായിരിക്കും ഗ്രീൻസ് ഫങ്ഷനുകൾ എന്ന ഈ ഒബ്ജക്റ്റ് കാണുന്നത് അതിനാൽ നിങ്ങൾക്ക് കുറച്ച് പരിചയവും ആശ്വാസവും നൽകുന്നതിന് ഈ വ്യത്യസ്ത ഉദാഹരണങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകും ഇപ്പോൾ അതിനുള്ള ചില പ്രചോദനങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർക്ക് ഇതിനകം തന്നെ വളരെ പരിചിതമാണ് അതൊരു ഇംപൾസ് റെസ്പോൺസ്ൻറെ ആശയമാണ് അതിനാൽ എഞ്ചിനീയറിംഗ് ഒന്നാം വർഷം പൂർത്തിയാക്കിയ എല്ലാവരും അത് ഡബിൾ ഇ ഇപി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ എന്താണ് ആശയം ഞാൻ ചില LTI സിസ്റ്റത്തിലൂടെ സിഗ്നൽ x അയയ്ക്കുന്നു ആ LTI സിസ്റ്റത്തിന്റെ സവിശേഷത എന്താണെന്ന് ഞാൻ പറയുന്നു ഏതെങ്കിലും ഇംപൾസ് റെസ്പോൺസ് h ആണ് അത് അതിനാൽ ഇത് LTI ലീനിയർ ടൈം ഇൻവേരിയൻസ് സിസ്റ്റം ആണെന്ന് നമ്മൾ അനുമാനിക്കും ടൈം ഡൊമെയ്നിലെ x ന്റെയും h ന്റെയും അടിസ്ഥാനത്തിൽ y പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ടൈം ഡൊമെയ്നിലെ ഒരു റെസ്പോൺസ് നമുക്ക് എങ്ങനെ തരംതിരിക്കാം കൺവല്യൂഷൻ ഇതൊരു കൺവല്യൂഷൻ ആയതിനാൽ y എന്നത് x h എന്നിവയുടെ കൺവല്യൂഷന് തുല്യമാണെന്ന് ടൈം ഡൊമെയ്നിൽ ഞാൻ എഴുതുന്നു ടൈം ഡൊമെയ്നിൽ കൺവല്യൂഷൻ കണ്ടെത്തുന്നത് അൽപ്പം ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാൽ ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള കൂടുതൽ സൌകര്യപ്രദമായ മാർഗം ഫ്രീക്വൻസി ഡൊമെയ്നിലാണ് അപ്പോൾ ഫ്രീക്വൻസി ഡൊമെയ്നിൽ കൺവല്യൂഷൻ മാറുന്നു ഗുണനം ഗുണനം അല്ലേ അതിനാൽ ഇത് Yω HωXω ആയി മാറുന്നു അതിനാൽ ഏതൊരു സിസ്റ്റം നൽകിയാലും നമ്മുടെ ആദ്യ ലക്ഷ്യം h കണ്ടെത്തുക എന്നതാണ് ഒരു എൽടിഐ സിസ്റ്റത്തിനായുള്ള h ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ എല്ലാം വളരെ എളുപ്പമാകും കാരണം റെസ്പോൺസ് ലഭിക്കുന്നതിന് ഒന്നുകിൽ ഞാൻ ടൈം ഡൊമെയ്ൻ പതിപ്പോ ഫ്രീക്വൻസി ഡൊമെയ്ൻ പതിപ്പോ ചെയ്യുന്നു അപ്പോൾ ഞാൻ എങ്ങനെ h കണക്കാക്കും എന്നതാണ് ചോദ്യം ഒരു സിസ്റ്റത്തിന്റെ ഇംപൾസ് റെസ്പോൺസ് കണക്കാക്കുന്നതിന് നിങ്ങൾ ഏത് തരത്തിലുള്ള നടപടിക്രമമാണ് പിന്തുടരുക Y ωXω അല്ലേ എന്നിട്ട് അതിൻറെ ഇൻവേർസ് എടുക്കുക ഇൻവേർസ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുക അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു ഇൻപുട്ടിനായി നമ്മൾ ആദ്യം Y ω കണക്കാക്കും രണ്ടാമത്തേത് ഒരു ഇൻവേർസ് ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യുക അതിനാൽ അത് Hω നെ h ലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും ഫ്രീക്വൻസി ഡൊമെയ്നിൽ ചെയ്യാൻ പോകുകയാണെങ്കിൽ ഒമേഗ ഡൊമെയ്നിൽ തന്നെ എനിക്ക് Hω ൽ തന്നെ തുടരാം ഇപ്പോൾ ഞാൻ കണക്കാക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം ഇതാണ് അതിനാൽ കൂടുതൽ കണക്കുകൂട്ടലുകൾ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്റെ ഔട്ട്പുട്ട് തന്നെ ഇംപൾസ് റെസ്പോൺസ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ ഏത് ഇൻപുട്ട് ആണ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത് ഈ സമവാക്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ Xω ഏതാണ് ഡെൽറ്റാ ഫംഗ്ഷൻ ലളിതമായ Xω ഒന്ന് ഒന്ന് Xω ഒന്നിന് തുല്യമാണെങ്കിൽ സിസ്റ്റം ഔട്ട്പുട്ടിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത് Hω യ്ക്ക് തുല്യമായിരിക്കും ഇപ്പോൾ ഇതിനോട് യോജിക്കുന്ന x എന്താണ് δ ഇത് ഒരു ഡെൽറ്റ ഫംഗ്ഷനാണ് അതിനാൽ ഞാൻ ഇവിടെ ഈ ഫംഗ്ഷനിലേക്ക് δ ഇടുകയാണെങ്കിൽ ഡെൽറ്റ ഫംഗ്ഷന്റെ സ്ഥാനം ഇന്റഗ്രലിൽ ഉൾപ്പെടുത്തുകയും എനിക്ക് 1 ന് തുല്യമായ Xω ലഭിക്കുകയും ചെയ്യും അതിനാൽ അതിന്റെ ഫലമായി Y ലഭിച്ചതെന്തും ഞാൻ അതിനെ ഇംപൾസ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് വളരെ പരിചിതമായ കാര്യമാണ് സിസ്റ്റത്തിന് യൂണിറ്റ് ഇംപൾസ് നൽകിയിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്റെ ഇംപൾസ് റെസ്പോൺസ് തന്നെയായിരിക്കും അതേ ആശയത്തെ ഗ്രീൻ ഫംഗ്ഷൻ എന്ന മറ്റൊരു പേരിൽ വിളിക്കുന്നു സിഗ്നലുകളിൽ ടൈമിലും ഫ്രീക്വൻസിയിലും ഞാൻ പ്രവർത്തിച്ച അതേ ആശയത്തിൽ ഞാൻ സ്പേസിലും സ്പേഷ്യൽ ഫ്രീക്വൻസിയിലും പ്രവർത്തിക്കും അതിനാൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേയുള്ളൂ ഈ ഗ്രീൻസ് ഫംഗ്ഷൻ ഒരു ഇംപൾസ് റെസ്പോൺസ്ന് സമാനമാണ് വ്യത്യസ്തമായി ഒന്നുമില്ല സ്പേസിലും ഇത് സാമാന്യവൽക്കരിക്കപ്പെടുന്നത് എനിക്ക് വൺ ഡൈമെൻഷൻ ടൂ ഡൈമെൻഷൻ മൾട്ടിപ്പിൾ ഡൈമെൻഷൻ മുതലായവയെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ഇത് പല ഡൈമെൻഷനുമായി പൊരുത്തപ്പെടുന്ന ഇംപൾസ് റെസ്പോൺസ് ആയിരിക്കും അതു മാത്രമാണ് ആശയം ഇപ്പോൾ നമ്മൾ സർഫസ് ഇന്റഗ്രൽ ഫോർമുലേഷൻ പരിശോധിച്ചപ്പോൾ g എന്ന ഫംഗ്ഷൻ വളരെ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾ ഇതിനകം കണ്ടു കാരണം അത് മറ്റെല്ലാം ലളിതമാക്കാൻ നമ്മളെ സഹായിച്ചു അതിനാൽ നമുക്ക് കുറച്ചുകൂടി ഔപചാരിക ഭാഷയിൽ ഇതിനകം അറിയാവുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ അവലോകനം നടത്താം അതിനാൽ ഈ എൽ ഒരു തരം ഓപ്പറേറ്റർ ആണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഓപ്പറേറ്ററിന്റെ ഈ ഉദാഹരണം നമുക്ക് ∇2 എന്ന് പറയാം അല്ലെങ്കിൽ ഇത് ∇2 k2 ആവാം അത് പ്രശ്നത്തെ ആശ്രയിച്ചിരിക്കുന്നു അത് ഞാൻ L എന്ന് വിളിക്കട്ടെ അതിന്റെ ഒരു ഓപ്പറേറ്റർ അതിനാൽ ഇത് ചില പ്രവർത്തനങ്ങളിൽ ചേർക്കുന്നു നമുക്ക് അതിനെ ϕ എന്ന് വിളിക്കാം എനിക്ക് അതിൽ നിന്ന് f ലഭിക്കും അതിനാൽ ഇപ്പോൾ നൊട്ടേഷൻ തരം നിങ്ങൾക്ക് വ്യക്തമാണ് മറ്റ് ചില പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട് ഔട്ട്പുട്ട് f ആണ് സാധാരണഗതിയിൽ f നിങ്ങൾക്ക് അറിയാം f എന്നത് നൽകിയിരിക്കുന്ന സോഴ്സിംഗ് ഫംഗ്ഷനാണ് എനിക്ക് ϕ കണ്ടെത്തണം സാധാരണയായി ഇത് നൽകിയിരിക്കുന്നു മറുവശത്ത് എനിക്ക് ϕ നൽകിയിട്ടുണ്ടെങ്കിൽ f കണക്കാക്കുന്നത് നിസ്സാരമാണ് ഞാൻ അതിൽ ഓപ്പറേറ്റർ പ്രയോഗിക്കുന്നു എനിക്ക് f ലഭിക്കും അതിനാൽ അത് വളരെ രസകരമല്ല രസകരമായത് f നൽകിയിട്ടുണ്ട് എങ്കിൽ ϕ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നതാണ് എനിക്ക് വേണ്ടത് അതാണ് എൽ ഓപ്പറേറ്ററും സം ഓപ്പറേറ്ററും എന്താണ് എൽ ഏതെങ്കിലും ജനറൽ ഓപ്പറേറ്റർ ആണ് നമ്മൾ അതിന്റെ പ്രത്യേകതകളിലേക്ക് കടക്കുന്നില്ല ഇത് ഇവിടെയുള്ള ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ പോലെയുള്ള ഏതെങ്കിലും ഓപ്പറേറ്റർ ആകാം കൂടാതെ ചില സ്ഥിരാങ്കങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ അത് പൊതുവായത് പോലെയായിരിക്കും ഇത് കഴിയുന്നത്ര പൊതുവായി നിലനിർത്തും അതിനാൽ ഉദാഹരണത്തിന് ഇത്തരത്തിലുള്ളവ നോക്കുമ്പോൾ ഈ ഓപ്പറേറ്റർ ഞാൻ എഴുതിയ രീതി അൺപ്രൈംഡ് കോർഡിനേറ്റുകളിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വാസ്തവത്തിൽ ഈ മുഴുവൻ സമവാക്യത്തിനും അൺപ്രൈംഡ് കോർഡിനേറ്റുകൾ മാത്രമേ ഉള്ളൂ അതിനാൽ പ്രൈം കോർഡിനേറ്റിൽ ഒരു കോർഡിനേറ്റ് കൂടി വരുന്ന ഗ്രീൻ ഫംഗ്ഷന്റെ കാര്യത്തിനായി ഞാൻ ഇത് സജ്ജീകരിക്കുന്നു എന്നാൽ L പ്രവർത്തിക്കുന്നത് അൺപ്രൈമിൽ മാത്രമാണെന്ന് നമ്മൾ ഇപ്പോൾ ഒരു കുറിപ്പ് എടുക്കും ഇപ്പോൾ ഞാൻ എങ്ങനെ ഇംപൾസ് റെസ്പോൺസ് നിർവചിക്കും L ന്റെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഗ്രീനിന്റെ പ്രവർത്തനത്തെ നമ്മൾ എങ്ങനെയാണ് നിർവചിച്ചത് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സമവാക്യം ഉണ്ടായിരുന്നുവെന്നും ഞങ്ങൾ g എന്നതിന് ഒരു നിർവചനം എഴുതിയിട്ടുണ്ടെന്നും ഓർക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അത് എങ്ങനെ എഴുതും അതിനാൽ ചില ഓപ്പറേറ്റർ എൽ പ്രവർത്തിക്കുന്നു ജി ജി രണ്ട് വേരിയബിളുകളുടെ ഒരു ഫംഗ്ഷൻ ആയി ഞാൻ നിർവചിച്ചിരിക്കുന്നത് ഓർക്കുക ഞാൻ ഇതിനെ എന്തിനോട് തുലനം ചെയ്യണം ഡെൽറ്റ ഡെൽറ്റ അല്ലേ ഇതാണ് ഗ്രീൻ ഫംഗ്ഷന്റെ നിർവചനം നൽകിയിരിക്കുന്ന ഇൻപുട്ട് ഒരു ഡെൽറ്റ ഫംഗ്ഷൻ ആയിരിക്കുമ്പോൾ സിസ്റ്റത്തിന്റെ പ്രതികരണമാണിത് നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഈ സംവിധാനത്തിന്റെ നിർവചനം അതാണ് അതിനാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇൻപുട്ട് ഒരു ഡെൽറ്റ ഫംഗ്ഷൻ ആയിരിക്കുമ്പോൾ സിസ്റ്റം റെസ്പോൺസ് ഇംപൾസ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നു ഇവിടെ നമ്മൾ അത് ഗ്രീൻ ഫംഗ്ഷനായി ഉപയോഗിക്കുന്നു ഇതുവരെ നമ്മൾ നിർവചനങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് ഫാൻസി ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഒരു LTI ആണെന്ന് അനുമാനിക്കുന്നത് ഡെൽറ്റയാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഇത് ഒരു എൽടിഐ സിസ്റ്റം ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ ഒരു ഡെൽറ്റ ഇൻപുട്ടിനുള്ള പ്രതികരണമായിരിക്കും ഇംപൾസ് റെസ്പോൺസ് ഉദാഹരണത്തിന് എൽ ഇതുപോലെയാണ് ഇതിനാൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സിസ്റ്റം ചില സിസ്റ്റം അതെ അതിനാൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻറെ വഴിയും ഒരു സിസ്റ്റത്തെ വിശേഷിപ്പിക്കാം അതിനാൽ ഡയറക്ട് ഡെൽറ്റ ഇൻപുട്ടാണെന്നും ജി അതിനുള്ള സിസ്റ്റത്തിന്റെ റെസ്പോൺസ് ആണെന്നും ചിന്തിക്കുക ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നത് ആ ഫംഗ്ഷനാണ് ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരേയൊരു ഫംഗ്ഷൻ ഇംപൾസ് റെസ്പോൺസ് തന്നെയാണ് അതിനാൽ പേര് ഇംപൾസ് റെസ്പോൺസ് അതിനാൽ ഞാൻ ഈ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇതാണ് ഇൻപുട്ട് ഇതാണ് റെസ്പോൺസ് നൊട്ടേഷൻ അൽപ്പം വ്യത്യസ്തമാണെന്ന് എനിക്കറിയാം പക്ഷേ അത് അങ്ങനെയാണ് വിപരീതം അതെ ഞാൻ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ വിപരീത അർത്ഥം എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ഔപചാരികമായി ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതാണ് എന്റെ ലക്ഷ്യമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഞാൻ അത് ഈ നൊട്ടേഷനിൽ എഴുതുകയാണ് അതിനാൽ സിഗ്നലുകളെയും സിസ്റ്റങ്ങളെയും കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അവബോധവും ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു മുമ്പ് ഒരിക്കൽ വേവ് ഇക്വേഷൻ നമ്മൾ എഴുതിയപ്പോൾ നിങ്ങൾ ഈ സമവാക്യം കണ്ടിട്ടുണ്ട് നമുക്ക് ∇2 k2g − δr − r′ ഉണ്ടായിരുന്നുവെന്ന് ഓർക്കുക അതിനാൽ മുമ്പ് ഒരു മൈനസ് ചിഹ്നം ഉണ്ടായിരുന്നതിനാൽ ഞാൻ ഇവിടെ ഒരു മൈനസ് ചിഹ്നം ഇട്ടിട്ടില്ല ഈ ഗ്രീൻ ഫങ്ഷനുമായി Green's function ബന്ധപ്പെട്ട് മറ്റൊരു കൺവെൻഷൻ ഉണ്ട് ചില ആളുകൾ ഒരു മൈനസ് ചിഹ്നം ഉപയോഗിച്ച് നിർവചിക്കും മറ്റു ചിലർ അത് ഉപയോഗിക്കാറില്ല ഇപ്പോൾ ഇതൊരു ഇംപൾസ് റെസ്പോൺസ് ആണ് അതിനാൽ മുമ്പത്തെ സ്ലൈഡിലെ പോലെ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന റെസ്പോൺസ് നൽകിയിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിന്റെ റെസ്പോൺസ് നിങ്ങൾ എങ്ങനെ കണ്ടെത്തും കൺവല്യൂഷൻ ഇൻപുട്ടുമായി സംയോജിപ്പിച്ച h ഔട്ട്പുട്ട് നൽകുന്നു അതിനാൽ ഇപ്പോൾ എനിക്ക് g നൽകിയാൽ എന്താണ് ϕ അതാണ് എന്റെ ചോദ്യം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ സമവാക്യം ഔപചാരികമായി പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അത് എങ്ങനെ ചെയ്യണം അതിനാൽ ഞാൻ ഈ സമവാക്യം 1 എന്ന് വിളിക്കുകയും ഈ സമവാക്യം 2 എന്ന് വിളിക്കുകയും ചെയ്താൽ 1 പരിഹരിക്കുന്നതിന് 2 ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആ ഉപരിതല അവിഭാജ്യത്തിനായി നമ്മൾ ഉപയോഗിച്ച തന്ത്രങ്ങൾ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും വാസ്തവത്തിൽ ഈ ഉത്തരം ലളിതമാണ് മറ്റൊന്നിന്റെ ഡി അതിനാൽ ഞാൻ രണ്ടാമത്തെ സമവാക്യത്തെ എന്ത് കൊണ്ട് ഗുണിക്കുന്നു f ഞാൻ രണ്ടാമത്തെ സമവാക്യത്തെ f കൊണ്ട് ഗുണിച്ചാൽ എന്തുകൊണ്ട് കാരണം നിങ്ങൾ സംയോജിപ്പിച്ചാൽ നിങ്ങൾക്ക് ഫൈ ലഭിക്കും കൃത്യമായി അതിന് ശരിയായ ആശയമുണ്ട് അപ്പോൾ ഞാൻ 2 നെ f കൊണ്ട് ഗുണിച്ചാൽ അതിനെ എന്ത് കൊണ്ട് ഗുണിക്കണം f കൊണ്ട് ഗുണിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതൊരു ഓപ്പറേറ്ററാണെന്ന് ഓർക്കുക അതിനാൽ ഞാൻ ഇടതുവശത്ത് ഗുണിക്കുകയാണ് ഒരുപക്ഷെ ഞാൻ ഇത് f സമവാക്യം 2 ആയി എഴുതണം അതിനാൽ fLgrr′ fδr − r′ ഈ f ന് ഈ L ൽ ഉടനീളം നീങ്ങാൻ കഴിയുമോ ഇല്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം നിർദ്ദേശിച്ചതുപോലെ ഞാൻ f ഗുണിച്ചാൽ ഈ ഡെൽറ്റ ഫംഗ്ഷൻ ഇരുവശത്തും സംയോജിപ്പിച്ചാൽ വലതുഭാഗം എന്താകും fr അത് fr ആയി മാറുകയാണെങ്കിൽ എനിക്ക് ഏകദേശം 1 എന്ന സമവാക്യത്തിന്റെ RHS ലഭിക്കും എന്നാൽ ഇടത് വശം L എന്തിനെയോ പ്രയോഗിച്ചതായി കാണുന്നില്ല അതിന്റെ f എന്തെങ്കിലും പ്രവർത്തിക്കുന്ന L കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ എനിക്ക് വേണ്ടത് കൃത്യമായി ലഭിക്കുന്നില്ല അതിനാൽ എനിക്ക് എന്തെങ്കിലും ചെറിയ മാറ്റമുണ്ടോ f പകരം fr കൊണ്ട് ഗുണിക്കുക അതിനാൽ ഞാൻ ഇത് ചെയ്താൽ fr ഇപ്പോൾ എൽ ഓപ്പറേറ്റർ പ്രവർത്തിക്കുന്നത് അൺപ്രൈമിൽ മാത്രമാണ് അതിനാൽ L നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സ്ഥിരാങ്കമാണ് അതിനാൽ ഉദാഹരണത്തിന് L എന്നത് ddr ആണ് ഞാൻ r ഗുണിച്ചാൽ r എന്നതിന് r മായി യാതൊരു ബന്ധവുമില്ല അതിനാൽ r ന് ഈ L ഓപ്പറേറ്ററിലുടനീളം നീങ്ങാൻ കഴിയും അങ്ങനെയെങ്കിൽ ഇത് Lfr′grr′ fr′δr− r′ ആയി മാറുന്നു ഇപ്പോൾ ഞാൻ ഇതിനകം നിർദ്ദേശിച്ചതുപോലെ സംയോജിപ്പിക്കുന്നു അതിനാൽ ഞാൻ ഒരു പ്രദേശത്തെ സംയോജിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് പ്രധാനം ഞാൻ ഏത് പോയിന്റ് ഉൾപ്പെടുത്തണം r' rr' അല്ലെങ്കിൽ ഞാൻ വലതുവശത്ത് 0 സംയോജിപ്പിക്കുന്നു അതിനാൽ പ്രൈംഡ് അല്ലെങ്കിൽ അൺപ്രൈംഡ് ആയ കോർഡിനേറ്റുകളെയാണ് ഞാൻ സംയോജിപ്പിക്കുന്നത് പ്രൈം ചെയ്തത് പ്രൈംഡ് കോർഡിനേറ്റുകൾ ശരിയാണ് കാരണം ഒരു കാരണം ഉണ്ടാകാം മറ്റൊരു കാരണം അപ്പോൾ എനിക്ക് ആ അവിഭാജ്യ ഭാഗം നീക്കാൻ കഴിയും കാരണം L പ്രവർത്തിക്കുന്നത് അൺപ്രൈമിൽ മാത്രം അതിനാൽ ഇപ്പോൾ പ്രൈംഡ് കോർഡിനേറ്റുകൾ സംയോജിപ്പിക്കുക അപ്പോൾ ഇടതു വശവും വലതു വശവും തുല്യമാകും ഇപ്പോൾ ഞാൻ ഈ സമവാക്യം നോക്കിയാൽ നമുക്ക് ഇതിനെ 3 എന്ന് വിളിക്കാം അപ്പോൾ 3 ഉം 1 ഉം താരതമ്യം ചെയ്യുക ഈ രണ്ട് സമവാക്യങ്ങളുടെയും വലതുവശം എന്താണ് ഒരേ f ആണോ ഇടത് വശം എൽ എന്തെങ്കിലുമായി പ്രവർത്തിക്കുന്നു എൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നു അതിനാൽ ഞാൻ ഈ വസ്തുക്കളെ താരതമ്യം ചെയ്താൽ എനിക്ക് എന്ത് പറയാൻ കഴിയും ϕ അതിനാൽ ഞാൻ ഇംപൾസ് റെസ്പോൺസ് സ്വീകരിച്ച് ഈ സംയോജനം നടത്തിയതായി നിങ്ങൾ ശ്രദ്ധിച്ചുകാണും ഈ സംയോജനം യഥാർത്ഥത്തിൽ നിങ്ങൾ സിഗ്നലുകളിലും സിസ്റ്റങ്ങളിലും കണ്ടിട്ടുള്ളതാണ് ഇത് കൺവല്യൂഷൻ ആകണം എന്നാൽ ഇത് എഴുതുന്നതിനുള്ള കൂടുതൽ പൊതുവായ രീതിയാണ് അതിനാൽ സിസ്റ്റത്തിലേക്കുള്ള ഇൻപുട്ട് നൽകിയാൽ ഇംപൾസ് റെസ്പോൺസ്ൻറെ സഹായത്തോടെ അത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് നൽകും അതിനാൽ എല്ലാ കഠിനാധ്വാനവും g കണ്ടെത്തുന്നതിലേക്ക് പോകുന്നു വളരെയധികം കഠിനാധ്വാനം g കണ്ടെത്തുന്നതിന് പോകും അതായത് സമവാക്യം 2 പരിഹരിക്കുന്നു ഒരിക്കൽ ഞാൻ സമവാക്യം 2 പരിഹരിച്ചാൽ അത് എനിക്ക് എത്ര വ്യത്യസ്തമായ ഇൻപുട്ടുകൾ നൽകുന്നു ഈ അവിഭാജ്യതയെ വിലയിരുത്തുക മാത്രമാണ് ഞാൻ ചെയ്യേണ്ടത് അതിനാൽ ഈ ഗ്രീൻസ് ഫങ്ഷന് Green's function എൽടിഐ സിസ്റ്റങ്ങളിൽ ഇംപൾസ് റെസ്പോൺസ്ൻറെ അതേ പ്രാധാന്യമുണ്ട് ഇത് സിസ്റ്റത്തെ പൂർണ്ണമായും വിശേഷിപ്പിക്കുന്നു ഈ വളരെ പൊതുവായ വ്യുൽപ്പന്നത്തിൽ ഞാൻ പരാമർശിച്ചിട്ടില്ലാത്തത് ഈ ഗ്രീൻസ് ഫംഗ്ഷൻ ഇതിൽ അന്തർലീനമായിരിക്കുന്ന പ്രശ്നത്തിന്റെ അതിർത്തി വ്യവസ്ഥകളും അനുസരിക്കണം എന്നതാണ് വ്യക്തമായ ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ ഈ അതിർത്തി വ്യവസ്ഥകൾ എങ്ങനെ തൃപ്തിപ്പെടുത്തുന്നുവെന്ന് വ്യക്തമാകും